അതിനാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് അത് എങ്ങനെ എത്തിക്കാമെന്ന് നോക്കാം നമുക്ക് നമ്മുടെ സമവാക്യം ഇവിടെ വീണ്ടും എഴുതാം എനിക്ക് ∇2E − Ei k02εrE − k02Ei 0 ഉണ്ടായിരുന്നു ∇2 k02 എന്നീ പദങ്ങൾക്ക് പൊതുവായ വേരിയബിളായി E Ei ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഇപ്പോൾ സൂചന അത് ആദ്യത്തെ നിയന്ത്രണമായ രണ്ടാമത്തെ പരിമിതി എന്തായിരുന്നു വിദ്യാർത്ഥി εr രണ്ടാമത്തെ പരിമിതി ഈ സമവാക്യം 4 ലായിരുന്നു ഇത് സ്ഥിരമായതോ സ്ഥലത്തിന്റെ പ്രവർത്തനമോ ആയിരുന്നു വിദ്യാർത്ഥി സ്ഥിരം അതിനാൽ എനിക്ക് ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് ഞാൻ ക്രമീകരിക്കേണ്ട 2 കാര്യങ്ങൾ ഇവയാണ് എനിക്ക് ഇവിടെ എന്തുചെയ്യാൻ കഴിയും ഇടത് വശത്ത് നിന്ന് ഈ വ്യക്തിയെ നീക്കംചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതിന് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് εr എന്നത് സ്പെയ്സിന്റെ പ്രവർത്തനമാണ് അതിനാൽ എനിക്ക് എന്തുചെയ്യാൻ കഴിയും ഇത് വലത് വശത്തേക്ക് നീക്കുക എനിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നാൽ ഞാൻ അത് വലതുവശത്തേക്ക് നീക്കുകയാണെങ്കിൽ k02 നൊപ്പം പോകാൻ എനിക്ക് ഇനി ഒരു E പദമില്ല അതിനാൽ വളരെ ലളിതമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പൊതു പദം ചേർക്കാനും കുറയ്ക്കാനും എന്നെ അനുവദിക്കുക എന്നതാണ് അപ്പോൾ ഞാൻ ഇരുവശത്തും k02E ചേർത്താലോ ഇത് ∇2E − Ei k02εrE − k02Ei k02E k02E ആയി മാറും എനിക്ക് ചതുരാകൃതിയിലുള്ള k നെ ഒരുമിച്ച് ശേഖരിക്കാൻ കഴിയും എനിക്ക് E − Ei ഉണ്ട് അതിനാൽ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചു ഇപ്പോൾ ആവശ്യമില്ലാത്തതെന്തും ഞാൻ വലതുവശത്തേക്ക് നീങ്ങണം അതിനാൽ മറുവശം എന്തായിരിക്കും ഈ പദം മറുവശത്ത് തുടരും ഈ വ്യക്തി വലതുവശത്തേക്ക് നീങ്ങുന്നു അതിനാൽ എനിക്ക് ഒരു k02εr − 1E ഉണ്ട് ∇2E − Ei k02E − Ei − k02εr − 1E ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഫോം പോലെ തോന്നുന്നു എന്തുകൊണ്ടെന്നാൽ ഓപ്പറേറ്റർ സാധാരണമായതിനാൽ ∇2 k02 ഇരുവശത്തും പ്രത്യക്ഷപ്പെട്ടു അതിനാൽ അതെ എന്നുള്ളപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം വീണ്ടും എഴുതാൻ ആഗ്രഹിച്ചു എനിക്ക് ഈ 2 സമവാക്യങ്ങൾ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പരിഹാരം എഴുതിയത് ϕ എന്നത് ഈ 2 സമവാക്യങ്ങൾ കൂട്ടിച്ചേർത്താണ് എഴുതിയത് എനിക്ക് f g എന്നിവയിൽ ϕ എന്നതിനെ കൺവല്യൂഷൻ ആയി എഴുതാം ആ കൺവല്യൂഷൻ മൈനസ് ആയിരുന്നു ϕ ∫grr′fr′dr′ അതിനാൽ ഇപ്പോൾ ഈ സമവാക്യം ശരിയായി പരിഹരിക്കുന്നതിന് നമുക്ക് അത് പ്രയോജനപ്പെടുത്താം അതിനാൽ ∇2grr′ k02grr′ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും അതിനാൽ വേരിയബിൾ അതേപടി നിലനിർത്തണം അതിന്റെ E − Ei അതാണ് ഇപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷന്റെ കൺവല്യൂഷന് തുല്യമാകാൻ പോകുന്നത് വിദ്യാർത്ഥി സാർ എന്താണ് Ei എന്ന് അറിയില്ല Ei എന്താണെന്ന് നമുക്കറിയാം ഇവിടെ വലതുഭാഗം മുഴുവനും മൈനസ് അടയാളങ്ങളിലൊന്ന് റദ്ദാക്കി അത് കുഴപ്പമുണ്ടോ ഇതും എന്താണെന്നും നമുക്ക് നോക്കാം അതിനാൽ സംയോജനത്തിന്റെ പ്രദേശം പൂർണ്ണ വോളിയം V1 V2 ആയിരിക്കും അത് കൂടുതൽ പൊതുവായതാക്കുന്നു അതേസമയം ഇതാണ് നമുക്ക് ലഭിക്കുന്ന പ്രയോഗം ഇപ്പോൾ ഈ പ്രയോഗം നോക്കുമ്പോൾ അതിന് വീണ്ടും ഉണ്ടോ അതിനുള്ളിലെ പ്രശ്നത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടോ അതിനാൽ ഈ പ്രശ്നത്തിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് നമുക്ക് എഴുതാം സംഭവ മേഖല എനിക്കറിയാം മറ്റെന്താണ് എനിക്കറിയുക വസ്തുവിന്റെ ആകൃതി അനുമതി ആപേക്ഷിക പെർമിറ്റിവിറ്റി ഏതൊക്കെ എൻകോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ അറിയാം ഇപ്പോൾ എനിക്ക് ഗ്രീൻ എക്സ്പ്രെഷൻ എന്ന ക്ലോസ്ഡ് ഫോം ഉപയോഗിക്കാം ഞാൻ ഈ സമവാക്യം ഉപയോഗിക്കുന്നതിനാലും ഈ സമവാക്യത്തിലെ പരിഹാരം എനിക്കറിയാമെന്നതിനാലും അജ്ഞാതമായത് എന്തെന്നതിനാലും മുമ്പ് ഉരുത്തിരിഞ്ഞത് വിദ്യാർത്ഥി ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് അജ്ഞാതമായത് ഇപ്പോൾ ഇത് നോക്കുന്നത് ഏത് തരത്തിലുള്ള ആദ്യമാണ് ഇത് ഒരു സമഗ്ര സമവാക്യമാണ് അതെ അല്ലെങ്കിൽ ഇല്ല ഇതൊരു അവിഭാജ്യ സമവാക്യമാണ് എന്തുകൊണ്ടെന്നാൽ അജ്ഞാത വേരിയബിളായ താൽപ്പര്യത്തിന്റെ വേരിയബിൾ അത് ഇന്റഗ്രൽ ചിഹ്നത്തിനുള്ളിൽ ദൃശ്യമാകുന്നത് എന്തുകൊണ്ട് അതെ ഇവിടെയാണ് എന്നാൽ ഏത് തരത്തിലുള്ള വ്യത്യസ്ത സമവാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇത് ഏത് തരത്തിലുള്ള ഡിഫറൻഷ്യൽ സമവാക്യമാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യം എന്തെന്നാൽ അജ്ഞാതമായത് അവിഭാജ്യ ചിഹ്നമായ വലത്തിന് അകത്തും പുറത്തുമാണ് അതിനാൽ നമ്മൾ ഇത് ഒരു കുറിപ്പ് ഉണ്ടാക്കും ഇത് രണ്ടാമത്തെ തരത്തിലുള്ള ഫ്രെഡ്ഹോം അവിഭാജ്യ സമവാക്യമാണ് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുകയും ക്വാണ്ടം മെക്കാനിക്സിലെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനുകൾ കണക്കാക്കുകയും ചെയ്താൽ ഗണിതശാസ്ത്രജ്ഞർ ഈ സമവാക്യത്തെ വിളിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരേ സമവാക്യം ലഭിക്കും ഭൌതികശാസ്ത്രജ്ഞർ ഇതിനെ ലിപ്മാൻ ഷ്വിംഗർ സമവാക്യം എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു ഫിസിക്സ് പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇരട്ട E അല്ലെങ്കിൽ ഗണിത പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനായി ഈ വാക്ക് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ തരത്തിലുള്ള ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യം നിങ്ങൾ കണ്ടെത്തും പക്ഷേ അവ രണ്ടും ഒരേ ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ സമവാക്യം ശരിയാക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് മസാജ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ടെക്നിക് ഒരു വശത്ത് എല്ലാ അജ്ഞാതരെയും ശേഖരിക്കുക കഴിയുന്നത്ര അറിയപ്പെടുന്നവയെ വലതുവശത്തേക്ക് വലത്തേക്ക് നീക്കുക അതിനാൽ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമായി മാറുന്നു എനിക്ക് ഇന്റഗ്രൽ ഇവിടെ നേരെ നീക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ഒരുതരം സൌകര്യപ്രദമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിനേക്കാൾ ചെറുതാക്കാൻ എനിക്ക് സംയോജന മേഖലയെ ആക്കാമോ ഇത് നമ്മുടെ V2 ആയിരുന്നു ഇത് നമ്മുടെ V1 ആണ് അതിനാൽ ഞാൻ V1 V2 ന് മുകളിൽ സംയോജിപ്പിക്കുന്നു അതാണ് ഞാൻ ഏറ്റവും പൊതുവായി പറഞ്ഞത് എനിക്ക് ഇത് V2 ആക്കാനാകുമോ എന്നത് ഇന്റഗ്രാൻഡ് നോക്കൂ എല്ലായിടത്തും ഇൻറഗ്രാൻഡ് നോൺ സീറോ ആണ് ഈ പദം നോക്കുക ഈ പദം പൂജ്യമല്ല വിദ്യാർത്ഥി ഒരേയൊരു കാര്യം V2 ന്റെ ഉള്ളിൽ മാത്രം V2 ന് പുറത്ത് മേഖലയിൽ V1 അതിന്റെ വാക്വം അപ്പോൾ വാക്വം 1 ന്റെ ആപേക്ഷിക പെർമിറ്റിവിറ്റി എന്താണ് അതിനാൽ ഈ പദം ഇവിടെ അവിഭാജ്യമാണ് കാരണം ഇത് സ്വയമേവ അത് താൽപ്പര്യമുള്ള V2 ൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു വിദ്യാർത്ഥി അതിന്റെ r′ അതെ ഇത് ശരിയാണ് ഇപ്പോൾ എനിക്ക് ഒടുവിൽ താൽപ്പര്യമുള്ളത് എന്താണ് എനിക്ക് പുറത്തെവിടെയെങ്കിലും ഫീൽഡ് അറിയണം അവിടെയാണ് എനിക്ക് ഫീൽഡ് കണ്ടെത്തേണ്ടത് ഉദാഹരണത്തിന് ഈ V2 ഒരു വിമാനത്തെ പ്രതിനിധീകരിക്കാം അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ രൂപകൽപ്പന ചെയ്ത പുതിയ Wi Fi ആന്റിന ആവാം ഈ അവകാശത്തിന്റെ റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എല്ലായിടത്തും ഫീൽഡ് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ V1 ന്റെ മൂല്യം r ന്റെ ഒരു മൂല്യം പ്ലഗ് ഇൻ ചെയ്താൽ ഈ സമവാക്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയാമോ അതിനാൽ ഞാൻ r എന്നത് ഇവിടെ V1 ന്റെ ഉള്ളിലെ ചില പോയിന്റിന് തുല്യമാണെന്ന് കരുതുക അതിനാൽ എനിക്ക് ഒരു എക്സ്പ്രഷൻ ലഭിക്കും E E i ഈ പദം ഇവിടെയുണ്ട് ഈ പദത്തിൽ എനിക്ക് ഒരു അളവ് അറിയില്ല അതായത് V2 നുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്കറിയില്ല അതിനാൽ എനിക്ക് ഇപ്പോൾ ഈ സമവാക്യം ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ചെയ്യേണ്ട ആദ്യ പടി എന്താണ് എനിക്ക് V2 നുള്ളിലെ ഫീൽഡ് അറിയാമെങ്കിൽ എനിക്ക് V2 നുള്ളിലെ E അറിയാമെങ്കിൽ ഞാൻ അതെ ചെയ്തു എനിക്ക് V2 നുള്ളിലെ E അറിയാമെങ്കിൽ എനിക്കറിയാം Ei എനിക്കറിയാം അതിനാൽ എനിക്ക് E എല്ലായിടത്തും അറിയാം അതിനാൽ എല്ലായ്പ്പോഴും 2 ഘട്ടങ്ങളിലായി പരിഹരിച്ച ഇന്റഗ്രൽ സമവാക്യങ്ങൾ മുമ്പത്തെ ഈ ട്രിക്ക് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു അതിനാൽ 2 ഘട്ടങ്ങൾ ഈ കേസിൽ ആദ്യ ഘട്ടം V2 നുള്ളിൽ E കണ്ടെത്തുക എന്നതാണ് ഇത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഉദാഹരണം പോലെയാണ് വടിയിലെ ചാർജ് ആദ്യം കണ്ടെത്തുക തുടർന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ടെത്താൻ കഴിയാത്ത എല്ലായിടത്തും സാധ്യത കണ്ടെത്തുക എല്ലായിടത്തും സാധ്യത അതിനാൽ ആദ്യം V2 നുള്ളിൽ E കണ്ടെത്തുക തുടർന്ന് എവിടെയും E കണ്ടെത്തുക അതിനാൽ ആദ്യ ഘട്ടം എനിക്ക് എങ്ങനെയെങ്കിലും സമവാക്യങ്ങളുടെ ഒരു സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള ചട്ടക്കൂട് നമ്മൾ കണ്ടു ആ ചട്ടക്കൂട് അവിഭാജ്യ സമവാക്യങ്ങളാണ് സമഗ്ര സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചട്ടക്കൂട് എന്താണ് ഈ മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കുന്നത് നിമിഷങ്ങളുടെ രീതി അതിനാൽ ഈ അവിഭാജ്യ സമവാക്യം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് നിമിഷങ്ങളുടെ രീതിയാണ് അതിനാൽ നമുക്കറിയാവുന്ന നിമിഷങ്ങളുടെ ഏറ്റവും ലളിതമായ രീതി നമ്മൾ ഉപയോഗിക്കും അതിനാൽ പൾസ് ബേസിസ് ഡെൽറ്റ പരിശോധനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് ഒരു 2 ഡൈമൻഷണൽ വോളിയം ഉണ്ട് അതിൽ എനിക്ക് പൾസ് ബേസിസ് ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് ഉപരിതല ഇന്റഗ്രൽ ഫോർമുലേഷനിൽ എനിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു ആ വരിയിൽ എനിക്ക് പൾസ് ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി പൊതുവായി മാറുകയാണ് വിദ്യാർത്ഥി സാർ വിദ്യാർത്ഥി അപ്പോൾ അതെങ്ങനെ അതിനാൽ ആദ്യ ഘട്ടത്തിൽ നമുക്ക് കുറച്ച് വ്യവസ്ഥാപിതമായി നോക്കാം ഈ സമവാക്യത്തിൽ ഞാൻ V2 ൽ പെടുന്ന r തിരഞ്ഞെടുക്കും ഞാൻ V2 വിവിധ പോയിന്റുകളിൽ r പകരം വയ്ക്കുകയും അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും അതിന്റെ അവസാനം എനിക്ക് E പൂർണ്ണമായി V2 ന്റെ ഉള്ളിൽ അറിയാം ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് V1 ന്റെ r തിരഞ്ഞെടുക്കുമ്പോൾ സംയോജനത്തിന്റെ ഡൊമെയ്ൻ ഇവിടെ V2 ആയി തുടരുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ എനിക്ക് ഇപ്പോഴും V2 നുള്ളിൽ E ആവശ്യമാണ് ഞാൻ V1 ന്റെ V1r ന്റെ r ഇടുന്നത് ഇവിടെയാണ് ഈ r ലും V2 ന് പുറത്ത് 0 ആകാൻ പോകുന്ന മറ്റെല്ലാം അതേപടി തുടരുന്നു സംയോജനത്തിന്റെ വേരിയബിൾ കാണുക വിദ്യാർത്ഥി V2 സമന്വയിപ്പിക്കുന്നു അതെ V2 ന് മുകളിൽ മാത്രം വിദ്യാർത്ഥി അതിനാൽ അത് പോകുന്നില്ല V2 നുള്ളിൽ ഈ പദം 0 ലേക്ക് പോകുന്നില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനാലാണ് നമ്മൾ ഏകീകരണ മേഖല V2 ശരിയാക്കിയത് അതിനാൽ അത് നമ്മുടേതാണ് യഥാർത്ഥത്തിൽ സംയോജനത്തിന്റെ മേഖല V1 V2 ആയിരുന്നു അപ്പോൾ നമ്മൾ V1 ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ആ സംയോജനം തന്നെ V2 വലത് വശത്ത് 0 ലേക്ക് പോകുന്നു അതിനാൽ നമ്മൾ ഇത് കുറച്ച് ലളിതമാക്കി നിമിഷങ്ങളുടെ രീതി ഉപയോഗിച്ച് നമ്മൾ ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിലേക്ക് ഇപ്പോൾ മടങ്ങിവരുന്നു അതിനാൽ പൾസ് ബേസിസും ഡെൽറ്റ പരിശോധനയും ഇതാ എന്റെ ഒബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് V2 കാണിക്കാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നമ്മൾ വോളിയം വിവേചനം ചെയ്യുന്നു അതിനാൽ ഞാൻ വോളിയം വ്യതിരിക്തമാക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ഗ്രിഡ് ഉപയോഗിക്കേണ്ടതുണ്ട് ഗ്രിഡ് ഒബ്ജക്റ്റ് കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ പോകുന്നില്ല അതിനാൽ ഇത് ഒരു കാർട്ടൂൺ പ്രാതിനിധ്യം മാത്രമാണ് കാരണം ഞാൻ പിക്സലുകളുടെ വലുപ്പം ഉണ്ടാക്കുന്നു ഇപ്പോൾ ഇവയെ പിക്സലുകൾ എന്ന് വിളിക്കുന്നു കാരണം ഞാൻ പിക്സലിന്റെ വലുപ്പം ചെറുതാക്കുകയും ഉപരിതലത്തിന്റെ ഏകദേശം മികച്ചതാക്കുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങൾക്ക് ഫാൻസി ആയി പോയി ചതുരാകൃതിയിലുള്ള യൂണിറ്റുകൾ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ത്രികോണങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഉണ്ടാക്കാം എന്നാൽ അടിസ്ഥാന ആശയം നമുക്ക് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് പൾസ് ബേസിസ് അടിസ്ഥാനത്തിലുള്ള ഗ്രിഡ് കാണിക്കുന്നത് അർത്ഥമാക്കുന്നത് താൽപ്പര്യത്തിന്റെ വേരിയബിൾ എന്താണോ അത് പൾസ് ബേസിസ് ഫംഗ്ഷനിൽ പ്രകടിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് വിദ്യാർത്ഥി അകത്ത് ഉള്ളിൽ V2 അതിനാൽ ഞാൻ E എഴുതാം ഞാൻ പറഞ്ഞതെന്തും ഞാൻ ഈ ഡൊമെയ്നെ ക്യാപിറ്റൽ N പിക്സലുകളായി വിഭജിച്ചു ഈ പൾസ് ബേസിസ് ഫംഗ്ഷൻ nth പൾസിൽ 1 ഉം മറ്റെല്ലായിടത്തും 0 ഉം ആണ് അതിനാൽ ഞാൻ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ 1 ഞാൻ ഇത് nth പൾസ് ആയി എടുക്കുകയാണെങ്കിൽ അതിനാൽ ഇത് ഞാൻ അർത്ഥമാക്കുന്നത് r എഴുതുന്നതിൽ ഞാൻ അൽപ്പം മടിയനാണ് യഥാർത്ഥത്തിൽ ഇത് r→ ശരിയാണ് അതിന്റെ 2 ഡൈമൻഷണൽ പ്രശ്നങ്ങളാണ് അതിനാൽ ഇത് ഒരു r→ അതിനാൽ ഈ pn ഇവിടെ 1 ആണ് മറ്റെല്ലായിടത്തും 0 ആണ് അതിനാൽ മറ്റെല്ലായിടത്തും 1 0 ഉയരമുള്ള ഒരു കോളം പോലെ ഇവ എന്റെ 2D പൾസ് അടിസ്ഥാന പ്രവർത്തനമാണ് അതിനാൽ ഇവ 2D പൾസുകളാണെന്ന് ഓർമ്മിക്കുക അതിനാൽ അജ്ഞാതമായത് വൈദ്യുത മണ്ഡലമായിരുന്നു ഇപ്പോൾ പുതിയ അജ്ഞാതമാണ് വിദ്യാർത്ഥി an s അതിനാൽ ഇവ പരിഹരിക്കുന്നതിന് ഞാൻ പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സമവാക്യത്തിലേക്ക് തിരിഞ്ഞുനോക്കുകയാണെങ്കിൽ പൾസുകളായി ഞാൻ വിവേചനം ചെയ്യുന്നത് ഇതാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഈ പദവും ഇവിടെയുണ്ട് അതിനാൽ അത് പൾസുകളിലേക്കും ശരിയാണെന്ന് വിവേചനാധികാരം നൽകാം കാരണം ഞാൻ സംയോജനം ചെയ്യുമ്പോൾ സംയോജനം എല്ലാ പൾസുകളിലേക്കും ശരിയായി വിഭജിക്കും അതിനാൽ ഞാൻ ഈ εr − 1 എഴുതാൻ പോകുന്നത് ഓരോ തവണയും ഇത് എഴുതുമ്പോൾ ഇത് പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് അതിനാൽ നിങ്ങൾ അതിനായി ഉപയോഗിക്കുന്ന ഒരു പുതിയ വേരിയബിൾ ഉണ്ട് നിങ്ങൾ അതിനെ χ εr − 1 ക്ഷമിക്കണം വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ അത് വിദ്യാർത്ഥി സസെപ്റ്റബിലിറ്റി ഇത് അതേ സമയമല്ല അതെ നിങ്ങൾക്ക് ഇതിനെ സസെപ്റ്റബിലിറ്റി എന്ന് വിളിക്കാം അതെ ൽ എഴുതിയിരിക്കുന്നു അതിനാൽ ഇത് പെർമിറ്റിവിറ്റിയുടെ ഒരു പ്രത്യേക പ്രതിനിധാനം മാത്രമാണ് χn അറിയാമെന്ന് ഓർക്കുക അത് അജ്ഞാതമല്ല പ്രശ്നത്തിൽ എനിക്ക് നൽകിയത് ഒബ്ജക്റ്റിന്റെ പെർമിറ്റിവിറ്റി ഇത് ഒന്നിന് തുല്യമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് χn അറിയാം എന്നതാണ് വസ്തുത അതിനാൽ χn ഉം an ഉം 1 ആയി സംയോജിപ്പിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗം അറിയാം നിങ്ങൾക്ക് മറ്റൊരു ഭാഗം അറിയില്ല അതിനാൽ നമ്മൾ അത് പ്രത്യേകം സൂക്ഷിക്കും അതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ സമവാക്യം നോക്കാം അതിനാൽ എനിക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ സമവാക്യം അതിനാൽ ഇപ്പോൾ പൾസുകൾ ശരിയായി ഇടുക എന്നതാണ് ആദ്യപടി

അതിനാൽ ഇതുവരെ നമ്മൾ ആദ്യ ഭാഗം ശ്രദ്ധിച്ചു അടുത്ത ഭാഗം ഡെൽറ്റ പരിശോധനയാണ് അതിനാൽ ഞാൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ടെസ്റ്റിംഗിനായി ഡെൽറ്റ ഫംഗ്ഷനുകൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഇരുവശങ്ങളുടെയും ആന്തരിക ഉൽപ്പന്നം ഒന്നിലധികം എടുക്കുന്നു ഈ സാഹചര്യത്തിൽ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ δr − rm ആണെന്ന് നമുക്ക് പറയാം ഈ പൾസുകളിൽ ഒന്നിന്റെ കേന്ദ്രം എവിടെയാണ് എന്ന് നമുക്ക് പറയാം അതിനാൽ നമുക്ക് ഇതിനെ rm എന്ന് വിളിക്കാം അതിനാൽ ഞാൻ എന്തുചെയ്യുമെന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഈ ഇടത് വശം എടുത്ത് δr − rm കൊണ്ട് ഗുണിച്ച് dr ന് മുകളിൽ സംയോജിപ്പിക്കും അതിനാൽ ഈ E ഇവിടെ E ആണോ അല്ലെങ്കിൽ Er′ എന്നതാണോ അത് ഒരു ചോദ്യമായിരിക്കും വിദ്യാർത്ഥി എന്നാൽ ഇപ്പോൾ നിങ്ങൾ V2 ആണ് അളക്കുന്നത് ഇത് V2 ൽ സംയോജിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇത് അവിഭാജ്യ ചിഹ്നത്തിന് പുറത്താണ് ഇത് ഉരുത്തിരിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തിരികെ പോകാം ഈ സമവാക്യം ഉപയോഗിച്ച് നമ്മൾ ആരംഭിച്ച് അത് പരിഹരിക്കാൻ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുക അതിനാൽ ഞാൻ വ്യത്യാസം എടുത്ത് ഇവിടെ സംയോജിപ്പിച്ചപ്പോൾ ഈ ഇന്റഗ്രലിന് സ്ഥിരമാണ് അതിനാൽ ഇത് r ആണ് ഇത് r ആയി തുടരുന്നതും r′ അല്ല സംയോജനത്തിനുള്ളിൽ ഇത് r′ ആണ് ടെസ്റ്റിംഗ് ഫംഗ്ഷനിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ഈ ടെസ്റ്റിംഗ് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും വലതുവശത്തേക്കും പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഈ മുഴുവൻ പ്രയോഗവും എനിക്ക് ഇവിടെ ഉൾപ്പെടുത്താം അതാണ് പരിശോധന നടത്തുന്നതിന്റെ അർത്ഥം അപ്പോൾ അത് എന്തായിത്തീരും അതിനാൽ δr − rm എടുക്കുക ഇതാണ് എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ m th ടെസ്റ്റിംഗ് ഫംഗ്ഷൻ അതിനാൽ ഞാൻ ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ എടുക്കുന്നു ഇത് ആദ്യ ടേമിന് എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു പ്രേരണയാണ് വിദ്യാർത്ഥി ഈ ഡെൽറ്റ ഫംഗ്ഷനും 2D ആണ് ഇതിന്റെ ഒരു 2D ഡെൽറ്റ ഫംഗ്ഷൻ ആദ്യ ടേമിന് എന്ത് സംഭവിക്കും നമുക്ക് ഘട്ടം ഘട്ടമായി പോകാം ഏത് പൾസ് നിലനിൽക്കുന്നു വിദ്യാർത്ഥി rm mth പൾസ് അതിജീവിക്കും അതിന്റെ അളവ് എത്രയാണ് am സംഗ്രഹം ഇല്ലാതാകുന്നു കാരണം ഡെൽറ്റ ഫംഗ്ഷൻ നശിപ്പിക്കപ്പെടുന്നു എല്ലാം എന്നാൽ 1 പൾസ് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അൽപ്പം ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ഇതാണ് അതിനാൽ സംഗ്രഹം നിലനിൽക്കുമോ അതോ ഇല്ലാതാകുമോ ഈ ഡെൽറ്റ ഫംഗ്ഷൻ പ്രൈംഡ് അല്ലെങ്കിൽ അൺ പ്രൈംഡ് എന്ന് നിർവചിച്ചിരിക്കുന്നത് ഏത് കോർഡിനേറ്റുകൾക്കായാണ് എന്നതാണ് ചോദ്യം വിദ്യാർത്ഥി അൺപ്രൈംഡ് അൺപ്രൈംഡ് കോർഡിനേറ്റുകൾ അവിഭാജ്യത്തിനുള്ളിൽ അൺപ്രൈമിന്റെ പ്രവർത്തനമായ അളവ് ഏത് സംഗ്രഹവും എല്ലാം കഴിഞ്ഞു വിദ്യാർത്ഥി പ്രൈംഡ് പ്രൈംഡ് കോർഡിനേറ്റുകൾ അപ്പോൾ ഇവിടെ അൺപ്രൈംഡ് അളവ് എന്താണ് വിദ്യാർത്ഥി g g മാത്രം അപ്പോൾ ഈ അവിഭാജ്യഘടകത്തിന് എന്ത് സംഭവിക്കും ഇത് പ്രൈംഡ് കോർഡിനേറ്റുകളേക്കാൾ അവിഭാജ്യമായതിനാൽ ഇന്റഗ്രൽ നിലനിൽക്കും അൺപ്രൈംഡ് കോർഡിനേറ്റുകളുടെ പ്രവർത്തനം ഒരു g മാത്രമാണ് അപ്പോൾ ആ g ക്ക് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി g g കൃത്യമായും അവിഭാജ്യവും സംഗ്രഹവും അവ ഇല്ലാതാകും ഇല്ല അതിനാൽ എനിക്ക് ലഭിക്കും അതിനാൽ ഇതാണ് പൾസ് ബേസിസും ഡെൽറ്റ പരിശോധനയും നമ്മുടെ സമവാക്യത്തിൽ ചെയ്തത് എനിക്ക് ഈ സമവാക്യം പരിഹരിക്കാനാകുമോ എനിക്ക് ഈ സമവാക്യം പരിഹരിക്കാനാകുമോ ഇത് അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ തത്വത്തിൽ ഇത് വ്യക്തമാണ് അറിയപ്പെടുന്നവയും അറിയാത്തവയും ഉണ്ട് എനിക്ക് ഈ സമവാക്യം ഇവിടെ പരിഹരിക്കാൻ കഴിയും അതിനാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെന്ന് നോക്കാം ഇവിടെ g ന് അതിന്റെ ഒരു ഗ്രീൻ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഓർക്കുക അത് r′ rm വലത് ഭാഗത്ത് വീശുന്നു അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആശയപരമായി വളരെ വ്യക്തമായി പറയാം അതിനാൽ ഞാൻ 3 ബൈ 3 കേസ് എടുക്കും ഇത് എന്റെ ശരിയാണ് എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ എന്താണ് ഈ അവിഭാജ്യ ചെയ്യുന്നത് ഇത് മുഴുവൻ V2 ലും ഒരു അവിഭാജ്യമാണ് ഇത് മുഴുവൻ എന്റെ V2 ആണ് ഞാൻ എന്താണ് ചെയ്യുന്നത് സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ പ്രദേശം മുഴുവൻ ഓടുകയാണ് അതിനാൽ ഉദാഹരണത്തിന് r ′ ആദ്യം ഇതിൻറെതാണ് എന്ന് പറയാം ഇത് nth പൾസ് ആണെന്ന് പറയാം അപ്പോൾ grr′ ഈ ഫംഗ്ഷൻ എന്തായിരുന്നു ഇത് − j4H0k|r − r′| ഗ്രീനിന്റെ ഫംഗ്ഷന്റെ നിർവചനം 2 പോയിന്റുകൾ എടുത്ത് അവർ തമ്മിലുള്ള അകലം അതാണ് അപ്പോൾ പിന്നെ എന്താണ് അവശേഷിക്കുന്നത് അതിനാൽ ഞാൻ ഈ സംയോജനം നടത്തുമ്പോൾ ഞാൻ rm സ്ഥിരമായി സൂക്ഷിക്കപ്പെടുന്നു ഈ ദൂരം ഈ n thപൾസ് ശരിയാകുന്നിടത്ത് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഞാൻ rm സ്ഥിരമായി പിടിക്കുകയും ഇതിനെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇത് ഈ എല്ലാ പൾസുകൾക്കും 1 ബൈ 1 എന്നതിന്റെ അർത്ഥം ഇടതുവശത്തുള്ള രണ്ടാമത്തെ പദത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പൾസുമായി സംയോജിപ്പിക്കുമ്പോൾ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്ന ഗുണകം ഉൾപ്പെട്ടിരിക്കുന്ന അജ്ഞാത ഗുണകം അതിനാൽ ഇത് പൾസ് 1 2 3 4 5 6 7 8 9 ആണെങ്കിൽ ഞാൻ ഇവിടെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ദൃശ്യമാകുക a1 ഞാൻ ഇവിടെ വരുമ്പോൾ ശരിയാണോ വിദ്യാർത്ഥി a2 a2 a3 a4 അതിനാൽ ഞാൻ ഇവിടെ എഴുതിയ ഈ പദം അതിന്റെ ഒരു സംഗ്രഹമായതിനാൽ എനിക്ക് a1 എന്തെങ്കിലും പ്ലസ് a2 എന്തെങ്കിലും ലഭിക്കാൻ പോകുന്നു a9 വരെ എന്തെങ്കിലും ശരിയാണ് ഏത് പദം ഇവിടെ വരും ഇവിടെ rm എന്നത് r1 ആയി തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ഇത് മാത്രമായിരിക്കും വിദ്യാർത്ഥി a1 a1 അതിനാൽ എനിക്ക് 1 സമവാക്യം ഉണ്ടാകും എത്ര വേരിയബിളുകൾ വിദ്യാർത്ഥി 9 a1 മുതൽ a9 വരെയുള്ള 9 വേരിയബിളുകൾ എന്റെ വേരിയബിളുകളാണ് എനിക്ക് 1 സമവാക്യം 9 വേരിയബിളുകൾ ലഭിച്ചു അതിനാൽ എല്ലാ 9 നും നടപടിക്രമം ആവർത്തിക്കും ശരി പരിഹരിക്കാൻ എനിക്ക് 9 ബൈ 9 സമവാക്യം ലഭിക്കും അപ്പോൾ അതാണ് നമ്മൾ പിന്തുടരുന്ന തന്ത്രം അത് വ്യക്തമാണോ